ഫോറിയർ സീരീസ് ഇവാലുവേഷൻ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് II എന്ന വിഷയത്തെക്കുറിച്ചുള്ള ലക്ചർലേക്ക് സ്വാഗതം ഈ ലക്ചർ ഫോറിയർ സീരീസ് എന്ന വിഷയത്തിലാണ് വ്യത്യസ്തമായ ഫംഗ്ഷനുകളിൽ നമ്മൾ ഇവയെ വിലയിരുത്തും ആയതിനാൽ ഇന്ന് നമ്മൾ ഫോറിയർ സീരീസ് ൻ്റേ 2l പീരിയോഡിക് ഫംഗ്ഷൻ കവർ ചെയ്യും മുൻ ലെക്ചറുകളിൽ ഞങൾ 2π പീരിയോടിക് ഫംഗ്ഷനുകളെ പറ്റി ചർച്ച ചെയ്തിരുന്നു അത് 2π പീരിയോഡിക് ഫംഗ്ഷൻറ ഒരു പൊതു വൽക്കരണം മാത്രമാണ് തുടർന്ന് നമ്മൾ ഫൊറിയർ കോഎഫീഷ്യൻറുകളും അവയുടെ യഥാക്രമം വ്യത്യസ്ത ഫങ്ങ്ഷനുകളുടെ ഫൊറിയർ സീരീസുകളും വിലയിരുത്തും അതിനാൽ കഴിഞ്ഞ ലക്ചർ നമ്മൾ നമ്മൾ ചർച്ച ചെയ്ത് 2𝜋 പീരിയോഡിക് ഫംഗ്ഷൻ ഫോർ ഇയർ സീരിയസ് ഒന്നുകൂടി നോക്കാം 𝑓 എന്ന് പറയുന്നഇത് എന്ന −𝜋𝜋 ഇൻറർവല്ലിലെ പീരിയോഡിക് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ആണ് 𝑓𝑎02k1𝑎kcos 𝑘𝑥 𝑏𝑘sin 𝑘𝑥 ട്രിഗണോമെട്രിക് സീരീസിൽ നിന്നും ഒന്നും നമുക്ക് ഫോർ ഇയർ സീരിയസ് കിട്ടും 𝑎𝑘 യെ ഫോർ ഇയർ കോഎഫിഷ്യന്റ് എന്നുവിളിക്കാം 1𝜋 𝜋𝜋𝑓𝑥cos𝑘𝑥 𝑑𝑥 ൻറെ ഇന്റഗ്രൽ വച്ച് നമുക്ക് കണക്കാക്കാം അതുപോലെ 𝑏𝑘 എന്ന കോഎഫിഷ്യന്റ്നെ കണ്ടെത്താം അതുപോലെ വീണ്ടും സമാനമായ ഇന്റഗ്രൽ 1𝜋 𝜋𝜋𝑓𝑥sin𝑘𝑥 𝑑𝑥ഉപയോഗിച്ച് കണക്കാക്കാം ഇത് 𝑘123ആണ് ഇവിടെ ഈ 𝑎𝑘 𝑎0 നും സാധുതയുള്ളതാണ് അതിനാൽ ഈ 0 0 ൽ നിന്ന് ആരംഭിച്ച് 1 ഉം 2 ഉം വരെ തുടരുന്നു അതിനാൽ 2𝑙 പീരിയോഡിക് ഫംഗ്ഷനുള്ള അതിന്റെ വിപുലീകരണത്തിന് സമാനമായ ഘടന എടുക്കും മുൻ പ്രഭാഷണങ്ങളിൽ 2𝑙 പീരിയോഡിക് ആയ ട്രിഗണോമെട്രിക് സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ട് അതിനാൽ ഇവിടെ 2𝑙 പീരിയോഡിക് ഫംഗ്ഷന് 𝑓𝑥 ഇന്റർവെൽ −𝑙𝑙ലെ അല്ലെങ്കിൽ 02𝑙 ലെ പീസ്വേസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് കരുതുക 2𝑙 പീരിയോഡിക് എന്ന് കരുതപ്പെടുന്ന ഏത് വഴിയും അതിന്റെ ഫോറിയർ സീരീസ് നൽകുന്നത് 𝑎02k1𝑎k cos𝑘𝜋𝑥l 𝑘𝜋𝑥 𝑏k sin 𝑘𝜋𝑥l ഇങ്ങനെ ആയിരിക്കും ഇതിൽ 𝑎02 ഒരു കോൺസ്റ്റന്റ് ആണ് മാത്രമല്ല നമുക് cos𝜋𝑥 ന് പകരം 𝑎𝑘 ഉണ്ട് ഇപ്പോൾ നമുക് cos𝑘𝜋𝑥lകിട്ടും കൂടാതെ ഇവിടെ sin𝑘𝜋𝑥l ആകും അതിനാൽ 𝑙𝜋 ക്ക് ഇത് നമ്മൾ ഇതിനകം ചർച്ച ചെയ്ത 2𝜋 പീരിയോഡിക് ഫംഗ്ഷനിൽ നിന്ന് കൃത്യമായി കുറയ്ക്കും ഇപ്പോൾ കോഎഫിഷ്യന്റും സമാനമാണ് അതിനാൽ 𝑎𝑘 ക്ക് 1𝜋2ന് പകരമായി നമുക് 1lഉണ്ട് ഇത് 1lആണ് കൂടാതെ -𝑙 മുതൽ 𝑙 വരെ 𝑓𝑥 ആണ് മാത്രമല്ല നമുക്കിവിടെ cos പദം cos𝑘𝜋𝑥𝑙 𝑘123 അതിനാൽ 𝑏𝑘 വീണ്ടും 1lആകും കൂടാതെ sin𝑘𝜋𝑥lപകരമായി നമുക് sin𝑘𝜋𝑥𝑙 ഉം പിന്നെ 𝑘 യും ഈ കേസിൽ 1 2 3 മുതലായവയിലേക്ക് വ്യത്യാസം വരാം അതിനാൽ ഫോറിയർ സീരീസിൽ എഴുതുന്ന ഏത് 2𝑙 പീരിയോഡിക് ഫംഗ്ഷനോ അല്ലെങ്കിൽ ഈ -𝑙 𝑙 ൽ നിർവചിച്ചിരിക്കുന്ന ഫംഗ്ഷനോ ഇപ്പോൾ ഇത് ഒരു പൊതുവായ കേസാണ് അതിനാൽ ഇപ്പോൾ നമുക്ക് ചില ഉദാഹരണങ്ങളുണ്ട് ആദ്യത്തേതിൽ ഈ ഫംഗ്ഷനെ പ്രതിനിധീകരിക്കുന്നതിന് ഫോറിയർ സീരീസ് കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു −𝜋𝑥0 റെയ്ഞ്ചിൽ 𝑓𝑥 നെ നൽകിയിരിക്കുന്നത് −𝜋 ആയിട്ടാണ് അതിനാൽ ഇതാണ് ഫംഗ്ഷൻ പിന്നെ 0𝑥𝜋 ഫംഗ്ഷനെ നൽകിയിരിക്കുന്നത് 𝑥 ആയിട്ടാണ് അതിനാൽ ഇത് 𝜋 ഇത് −𝜋 അതിനാൽ ഇവിടെ നിന്ന് നൽകിയിട്ടുള്ള ഫംഗ്ഷനാണ് −𝜋𝑥0 അതിനെ −𝜋 എന്ന് പ്രതിനിധീകരിക്കുന്നു തുടർന്ന് ഫംഗ്ഷൻ 0 𝑥 𝜋 റെയ്ഞ്ചിൽ 𝑥 നൽകുന്നു അതിനാൽ ഇതൊരു പീസ്വേസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് അതിന്റെ ഫൊറിയർ സീരീസ് എഴുതാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഫൊറിയർ സീരീസ് കൺവെർജ് ചെയ്യുന്നിടത് ഇതൊരു 2𝜋 പീരിയോഡിക് ഫംഗ്ഷൻ ആയിരിക്കും പക്ഷേ ഫൊറിയർ സീരീസ് എഴുതാൻ ചില ഇന്റെർവെല്ലിൽ നിർവ്വചിച്ചിരിക്കുന്ന ഒരു ഫംഗ്ഷൻ നമുക് ആവശ്യമാണ് അതിനാൽ ഈ കേസിൽ ഇത് ഇന്റർവെൽ -𝜋 മുതൽ 𝜋 വരെ നൽകിയിരിക്കുന്നു ഇപ്പോൾ നമുക് ഫോറിയർ സീരീസ് എഴുതാം ആ ഫോറിയർ സീരീസ് കൺവെർജ് ചെയ്യുകയാണെങ്കിൽ അത് 2𝜋 പീരിയോഡിക് ഫംഗ്ഷനിലേക്ക് കൺവെർജ് ചെയ്യും സീരീസ് ഈ സ്റ്റാൻഡേർഡ് സീരീസ് ആണ് നൽകുന്നത് കാരണം നമ്മൾ സംസാരിക്കുന്നത് 2 𝜋 പീരിയോഡിക് ഫംഗ്ഷനെക്കുറിച്ചാണ് അതിനാൽ ഈ കേസിൽ നമ്മൾ 𝑓n1𝑎𝑛cos𝑛𝑥𝑏𝑛sin𝑛𝑥 ഈ സ്റ്റാൻഡേർഡ് സീരീസ് എഴുതിയിട്ടുണ്ട് നമുക് ആദ്യമേ അറിയാം 𝑎0 എന്നത് 1𝜋 𝜋𝜋𝑓𝑥𝑑𝑥 ആണ് അതിനാൽ നമ്മൾ ഈ ഇന്റഗ്രൽ കണക്കാക്കുമ്പോൾ നമുക് 1𝜋ഉണ്ട് കൂടാതെ -𝜋 മുതൽ 0 വരെ ഫംഗ്ഷനെ വിശദീകരിച്ചിരിക്കുന്നത് -𝜋 ആയിട്ടാണ് അതിനാൽ നമ്മൾ ഇത് പകരം കൊടുക്കുകയും 0 മുതൽ 𝜋 വരെ 𝑥 എന്ന പറയുകയും ചെയ്യും അതിനാൽ നമ്മൾ ഈ ആദ്യ ഇന്റഗ്രൽ കണക്കാക്കുമ്പോൾ ഉദാഹരണത്തിന് ഇത് −𝜋 ആണെങ്കിൽ നമുക് 𝑥 ഉണ്ട് അതിനാൽ 0−−𝜋 ആകും ഇത് −𝜋2 ആണ് കൂടാതെ ഇവിടെ രണ്ടാമത്തേതിൽ നിന്നും 𝜋22കിട്ടും അതിനാൽ ഇത് ഇതാണ് പിന്നെ 1𝜋 അവിടെ പുറത്ത് ഇരിപ്പുണ്ട് അതിനാൽ −𝜋2𝜋22 ഉം 1𝜋യും അവിടുണ്ട് അപ്പോൾ ഇവിടെ നമുക് 𝜋22 ഉണ്ട് അതിനാൽ ഈ 𝜋 𝜋ഉപേക്ഷിക്കും കൂടാതെ നമുക് −𝜋2 ലഭിക്കും കാരണം ഇത് ′−′ ആയിരുന്നു ഇവിടെ −𝜋2 മാത്രമല്ല ഈ 𝜋22 നമുക് ബ്രാക്കറ്റിൽ ഉണ്ട് കൂടാതെ 1𝜋പുറത്തു ഇരിപ്പുണ്ട് അതിനാൽ ഇത് 1𝜋യുടെ കൂടെ വരുന്ന ഒരു 𝜋22ആണ് അതിനാൽ നമുക് ഈ −12×𝜋𝜋2ലഭിക്കും അപ്പോൾ അത് 𝑎0 ആണ് ഇപ്പോൾ നമുക് 𝑎𝑛 ഉം 𝑏𝑛 ഉം കണക്കാക്കാം അതിനാൽ 𝑎𝑛 ന് നമുക് 1𝜋 𝜋𝜋∫𝑓𝑥cos𝑛𝑥𝑑𝑥 ഈ ഫോർമുലയുണ്ട് അപ്പോൾ വീണ്ടും 𝑓𝑥 നെ −𝜋𝑥0 വരെയുള്ള റേഞ്ചിൽ −𝜋 എന്നാണ് തന്നിരിക്കുന്നത് കൂടാതെ 0𝑥𝜋 വരെ 𝑥 എന്നും തന്നിരിക്കുന്നു അതിനാൽ നമ്മൾ ഇപ്പോൾ ഈ രണ്ട് ഇന്റഗ്രലുകളും കണക്കുകൂട്ടേണ്ടതുണ്ട് അതിനാൽ ആദ്യത്തേതിന് ഈ 𝜋 റദ്ദാക്കപ്പെടും അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 1𝜋 എഴുതാത്തത് അല്ലെങ്കിൽ ഈ 𝜋 ഈ 𝜋 ആകുകയും ഈ 𝜋 റദ്ദാക്കുകയും ചെയ്യും ആദ്യത്തേതിന് നമുക് cos𝑛𝑥 ഉണ്ട് അതിനാൽ അത് sinnxn ആകുകയും പരിധി −𝜋 മുതൽ 0 വരെ ആകുകയും ചെയ്യും രണ്ടാമത്തേതിന് നമുക് 1𝜋പുറത്തുണ്ട് തുടർന്ന് നമ്മൾ ഈ പാർഷ്യൽ ഇന്റഗ്രേഷൻ നിയമം പ്രയോഗിക്കേണ്ടതുണ്ട് അതിനാൽ ഇവിടെ ഈ 𝑥 അവിടെയുണ്ട് തുടർന്ന് cos𝑛𝑥 cos𝑛𝑥 ൽ നിന്ന് നമുക്ക് sinnxn ലഭിക്കും കൂടാതെ ഇന്റഗ്രേഷൻ പരിധി 0 മുതൽ 𝜋 വരെ ആകും തുടർന്ന് 𝑥 ന്റെ മൈനസ് ഡിഫറെൻസിയേഷൻ 1 ആണ് കൂടാതെ വീണ്ടും നമുക് sinnxnഉം 0 മുതൽ 𝜋 വരെയും ആകും അതിനാൽ ആദ്യത്തേതിൽ നമുക് ഇവിടെ ഉയർന്ന പരിധി ഉള്ളപ്പോൾ സൈൻ 0 ആകും കൂടാതെ 𝜋 ക്കും ഇത് 0 ആകും അതിനാൽ ആദ്യ ഘട്ടം മുതൽ നമുക് ഒന്നും ലഭിക്കുന്നില്ല അത് ഒരു പൂജ്യമാണ് രണ്ടാമത്തേതിലും ഇവിടെയുള്ള സൈൻ കാരണം 𝜋 യും 0 യും അതിനാൽ ഇത് വീണ്ടും 0 ആയി മാറും അവസാന ഘട്ടം ഉണ്ടാകും അതിനാൽ നമുക് 1𝜋 ഉണ്ട് ഈ കോസ് ലഭിക്കുന്നതിന് സൈൻ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യും അതിനാൽ 0 മുതൽ 𝜋 വരെ നമുക് cosnxn2 ഉണ്ട് കൂടാതെ ഈ ′−′ ചിഹ്നം sin𝑛𝑥 ന്റെ ഇന്റെഗ്രേലിനായി ക്രമീകരിച്ചിരിക്കുന്നു അതിനാൽ 0 മുതൽ 𝜋 വരെ നമുക് 1𝜋cos 𝑛𝑥n2ഉണ്ട് അതിനാൽ ഈ പരിധി പകരം കൊടുക്കുമ്പോൾ നമുക് cos𝑛𝜋 ഉണ്ട് ഇത് −1𝑛 ആണ് കൂടാതെ − cos 0 −1ആണ് മാത്രമല്ല 1n2𝜋പുറത്തുണ്ട് അതിനാൽ 𝑛 ഒരു ഈവൻ സംഖ്യ ആയതുകൊണ്ട് ഈ കോഎഫിഷ്യന്റ് 𝑎𝑛ഈ ഫൊറിയർ കോഎഫിഷ്യന്റ് 𝑎𝑛 നമുക് കണക്കാക്കാം ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആണ് അതിനാൽ ഇത് ഉപേക്ഷിക്കും കൂടാതെ നമുക് 0 ലഭിക്കും 𝑛 ഓഡ്ഡ് ആണെങ്കിൽ ഇത് −1 ഉം ഇത് −1 ഉം ആകും അതിനാൽ നമുക് 2n2𝜋 ഉണ്ട് അപ്പോൾ നമുക് ഈ ഫൊറിയർ കോഎഫിഷ്യന്റ് 𝑎𝑛 കിട്ടും ഇപ്പോൾ സമാനമായി നമുക്കു 𝑏𝑛 കണക്കാക്കാം അതിനാൽ 𝑏𝑛 ൽ നമുക്കിവിടെ സൈൻ ഫംഗ്ഷൻ ഉണ്ട് അതിനാൽ വീണ്ടും −𝜋𝑥0 വരെയുള്ള ഫംഗ്ഷന്റെ മൂല്യം 𝜋 എന്നുണ്ട് 0𝑥𝜋 വരെയുള്ള ഫംഗ്ഷന്റെ മൂല്യം 𝑥 എന്നുണ്ട് അപ്പോൾ ആദ്യത്തെത്തി ഈ 𝜋 യും ഈ 𝜋 യും ഉപേക്ഷിക്കും സൈൻ cosnxnആകും കൂടാതെ ഈ ′−′ −𝜋𝑥0ടെ ഇന്റഗ്രേഷനിൽ ക്രമീകരിക്കും മാത്രമല്ല ഈ 1 𝜋നമുക് പുറത്തുണ്ട് വീണ്ടും നമ്മൾ ഈ 𝑥sin𝑛𝑥 നെ ഇന്റഗ്രേറ്റ് ചെയ്യും അതിനാൽ ഈ 𝑥 ബാക്കിയാവുകയും sin𝑛𝑥 cosnxnആകുകയും ′−′ ഉം ′−′ ഉം ′′ ആകുകയും വീണ്ടും cosnxn𝑑𝑥 ഉണ്ടാകുകയും ചെയ്യും അതിനാൽ ഇത്തവണ ഈ പദം അപ്രത്യക്ഷമാകില്ല കാരണം 0 എന്ന മൂല്യത്തിൽ നമുക്ക് ഈ പദം 1 ആയി തുടർന്ന് −𝜋 ൽ നമുക്ക് cos𝑛𝜋−1𝑛 ഉം ലഭിക്കും തുടർന്ന് രണ്ടാമത്തെ കാര്യത്തിൽ നമുക് 1𝑛𝜋 ഉണ്ട് ഇവിടെ നമുക്ക് cos𝑛𝑥 നൊപ്പം ഉയർന്ന പരിധി 𝜋 ൽ −1𝑛 ലഭിക്കും ഈ സാഹചര്യത്തിൽ നമ്മൾ ഇത് സംയോജിപ്പിക്കുമ്പോൾ ഇത് sin𝑛𝑥n2 ആയി മാറും എന്നാൽ നമ്മൾ പരിധി മാറ്റിസ്ഥാപിക്കുമ്പോൾമുകളിലെ പരിധി അല്ലെങ്കിൽ താഴ്ന്ന പരിധി സൈൻ പ്രവർത്തനം കാരണം ഇത് 0 ആയി മാറും അതിനാൽ അവസാനത്തെ ഇന്റെഗ്രേലിന്റെ സംഭാവന 0 ആണ് ഇപ്പോൾ നമുക്ക് ഇത് ലളിതമാക്കാം അപ്പോൾ നമുക് 1n1−2−1𝑛 ലഭിക്കുംഅല്ലെങ്കിൽ ഈ 𝑏𝑛ന് n ഈവൻ ആണെങ്കിൽ 1−2nഅതായത് −1nവരും കാരണം 𝑛 ഇവിടെ ഈവൻ ആണെങ്കിൽ −1𝑛1 ആകും 𝑛 ഓഡ്ഡ് ആണെങ്കിൽ −1𝑛−1 ആകും അതിനാൽ ഇവ രണ്ടും കൂട്ടും അതിനാൽ നമുക്ക് ഇത് 3n ആയി ലഭിക്കും അതിനാൽ അതാണ് കോഎഫിഷ്യന്റ് 𝑏𝑛 നമുക്കുള്ളത് ഇപ്പോൾ ഫൊറിയർ സീരീസിലേക്ക് വരുന്നു അതിനാൽ നമുക്ക് ഇപ്പോൾ അതിന്റെ ഫോറിയർ സീരീസ് എഴുതാംഅതിനാൽ a02 ഉം പിന്നെ ഈ 𝑛1𝑎𝑛 cos𝑛𝑥𝑏n sin𝑛𝑥 പദങ്ങളും നമ്മൾ ഇപ്പോൾ കണക്കു കൂട്ടിയത് 𝑎0 𝑎𝑛𝑏𝑛 അതിനാൽ നമുക്ക് ഈ കോഎഫിഷ്യന്റ്നെ ഫൊറിയർ സീരീസിൽ പകരം വയ്ക്കാം കൂടാതെ നമുക്ക് ഫൊറിയർ സീരീസ് ഇനിപ്പറയുന്ന രീതിയിൽ ലഭിക്കും അതിനാൽ 𝑓𝑥 ൽ നമുക്ക് −𝜋4ലഭിക്കും കാരണം കോൺസ്റ്റന്റ് പദം a02ആണ് ഇത് −𝜋4ആകും അതുകഴിഞ് നമുക് −2𝜋ഉണ്ട് ആ പദമാണ് 𝑎𝑛 ൽ നിന്നും വന്നത് 𝑎𝑛 𝑏𝑛 പദങ്ങൾ മാറ്റിസ്ഥാപിക്കുമ്പോൾ ഈ വിപുലീകരിച്ച രൂപത്തിൽ നമ്മൾ ഈ കോസ് ടെംസ് എഴുതി അതിനാൽ ഇത് വരുന്നു കാരണം 2𝜋 ഇവിടെ കോസിൽ ഉണ്ടായിരുന്നു അതിനാൽ 2𝜋 ഇവിടെയുണ്ട് തുടർന്ന് നമുക്ക് ഈ കോസ് ടെംസ് ലഭിക്കും തുടർന്ന് സൈൻ ടെംസ് കൃത്യമായി 𝑏𝑛 ൽ നിന്ന് വരും അതിനാൽ ഈ രീതിയിൽ നമുക്ക് ഒരു ഫംഗ്ഷൻ ഫൊറിയർ സീരീസ് ലഭിക്കും ഫംഗ്ഷൻ പീസ്വേസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ഈ പിരീഡിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഈ സീരീസിലെ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ഉറപ്പുവരുത്തുന്നു അവസാന ലെക്ചറിൽ നമ്മൾ ഇതിനകം തന്നെ പീസ്വേസ് കണ്ടിന്യൂറ്റിയെക്കുറിച്ച ചർച്ച ചെയ്തിട്ടുണ്ട് അതിനാൽ ഒരു പരാമർശം മാത്രം ഒരു ഫംഗ്ഷന്റെ പീസ്വേസ് കണ്ടിന്യൂറ്റി മതിയാകുമെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് അതിനാൽ ഫൊറിയർ സീരീസിന്റെ നിലനിൽപ്പിനായി ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നത് അത് പര്യാപ്തമാണ് അതിനാൽ ഫോറിയർ സീരീസിന്റെ നിലനിൽപ്പിന് നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് വേണ്ടത് ഫംഗ്ഷന്റെ പീസ്വേസ് കണ്ടിന്യൂറ്റിയാണ് ഫംഗ്ഷൻ പീസ്വേസ് കണ്ടിന്യൂസ് ആയത് കാരണം നമുക്ക് ലഭിക്കും 𝑎𝑛 𝑏𝑛 കാരണം ഫംഗ്ഷൻ ഇന്റഗ്രബിൾ ആണ് പീസ്വേസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റെർവെല്ലിൽ ഇന്റഗ്രബിൾ ആണ് അതിനാൽ ഫൊറിയർ സീരീസിന്റെ നിലനിൽപ്പിന് അത് മതിയാകും അതിനാൽ ഒരു ഫംഗ്ഷൻ പീസ്വേസ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഫൊറിയർ കോഎഫിഷ്യന്റ്നെ കണക്കാക്കാൻ ഇത് എല്ലായ്പ്പോഴും സാധ്യമാണ് അത് വളരെ വ്യക്തമാണ് ഇപ്പോൾ ഒരു ഫംഗ്ഷന്റെ ഫോറിയർ സീരീസ് കൺവെർജ് ചെയ്യുമോ പ്രതിനിധീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുന്നു അതാണ് ചർച്ച ചെയ്യേണ്ട ചോദ്യം അടുത്ത ലെക്ചറിൽ നമ്മൾ ഇത് ചർച്ച ചെയ്യും കൂടാതെ ഫംഗ്ഷനിൽ ചില അധിക വ്യവസ്ഥകൾ ആവശ്യമാണെന്ന് നമ്മൾ കാണും പീസ്വേസ് കണ്ടിന്യൂറ്റി മാത്രമല്ല എന്നാൽ സീരീസ് ആവശ്യമുള്ള മൂല്യങ്ങളിലേക്ക് ഫംഗ്ഷനിലേക്ക് കൺവെർജ് ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്താൻ നമുക് കുറച്ച് വ്യവസ്ഥകൾ കൂടി ആവശ്യമാണ് അതിനാൽ ഈ വിഷയങ്ങൾ അടുത്ത ലെക്ചറിൽ നമ്മൾ പരിഗണിക്കും ഇപ്പോൾ മറ്റൊരു പരാമർശം ഇതിൽ ഒരു ഫംഗ്ഷൻ നിർവചിക്കപ്പെട്ടെ −𝑙 𝑙 അതിനാൽ −𝑙 𝑙 ൽ നിർവ്വചിച്ചിരിക്കുന്ന ഒരു ഫംഗ്ഷൻ നമ്മുടെ പക്കലുണ്ട് ഫോറിയർ സീരീസ് വികസിപ്പിക്കുന്നതിന് ഫംഗ്ഷന്റെ പീരിയോഡിസിറ്റി അത്ര ആവശ്യമില്ല കാരണം ഒരു പ്രത്യേക കേസിനായി നമുക് −𝑙 𝑙 അല്ലെങ്കിൽ −𝜋 𝜋 ൽ നിർവചിച്ചിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ആവശ്യമാണ് എന്നിട്ട് നമുക്ക് 𝑎𝑛 𝑏𝑛 എന്നിവ കണ്ടെത്താനും അനുബന്ധ ഫൊറിയർ സീരീസ് എഴുതാനും കഴിയും എന്നിരുന്നാലും ഈ ഫോറിയർ സീരീസ് കൺവെർജ് ചെയ്യുകയാണെങ്കിൽ അത് 2𝑙 പിരീഡിനൊപ്പം ഒരു പീരിയോഡിക് ഫംഗ്ഷനിലേക്ക് കൺവെർജ് ചെയ്യുന്നു എന്നാൽ തുടക്കത്തിൽ −𝑙 𝑙 എന്നതിൽ നിന്ന് നിർവ്വചിച്ചിരിക്കുന്ന ഒരു ഫംഗ്ഷൻ നമുക്കുണ്ട് കൂടാതെ ഇത് പീരിയോഡിക് അല്ലെങ്കിൽ നമുക് മറ്റ് വിവരങ്ങളൊന്നുമില്ലെങ്കിൽ ഈ −𝑙 𝑙 അല്ലെങ്കിൽ 02𝑙 എന്നതിൽ നിന്ന് ഫംഗ്ഷൻ നിർവ്വചിച്ചിരിക്കുന്നു പിന്നെ നമുക്ക് അതിന്റെ ഫൊറിയർ സീരീസ് എഴുതാം അതിനാൽ ഫംഗ്ഷൻ നിർവ്വചിച്ചിരിക്കുന്നു അത്രമാത്രം നമുക് മറ്റ് വിവരങ്ങളൊന്നുമില്ല പക്ഷേ നമുക്ക് അതിന്റെ ഫോറിയർ സീരീസ് എഴുതാം പിന്നെ ഫൊറിയർ സീരീസ് കൺവെർജ് ചെയ്യുകയാണെങ്കിൽ അത് കൺവെർജ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആയി മാറും ഒരു പിരീഡിൽ ആ ഫംഗ്ഷൻ കൃത്യമായി 𝑓𝑥 ആയി കാണപ്പെടും നമ്മൾ എഴുതിയ ഈ ഫംഗ്ഷൻ ഫൊറിയർ സീരീസ് ആണ് അതിനാൽ ആ കാര്യം വ്യക്തമാണെന്ന് ഞാൻ കരുതുന്നു എന്നിരുന്നാലും ഫോറിയർ സീരീസ് കൺവെർജ് ചെയ്യുകയാണെങ്കിൽ അത് 2𝑙 പീരിയോഡിക് ഫംഗ്ഷനിൽ ℝ ആയി നിർവ്വചിക്കും അതിനാൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ℝ ആയി നിർവ്വചിക്കാൻ കഴിയുന്ന 2𝑙 പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്ന് എപ്പോഴും ചിന്തിക്കാൻ ഇത് ചിലപ്പോൾ സൌകര്യപ്രദമാണ് പക്ഷേ അത് ആവശ്യമില്ല ചില ഡൊമെയ്നിൽ ഒരു ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട് നമുക്ക് അതിന്റെ ഫൊറിയർ സീരീസ് എഴുതാം ഈ ഫൊറിയർ സീരീസ് കൺവെർജ് ചെയ്യുകയാണെങ്കിൽ ഒരു കാലയളവിൽ ഒരു ആനുകാലിക ഫംഗ്ഷനിലേക്ക് അത് കൺവെർജ് ചെയ്യും ഫൊറിയർ സീരീസ് നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിച്ച അതേ ഫംഗ്ഷൻ തന്നെയായിരിക്കും ഇത് അതിനാൽമറ്റൊരു ഉദാഹരണം നമ്മുടെ പക്കലുണ്ട് ഒരു ഫൊറിയർ സീരീസിൽ ഇത് 𝑓𝑥|sin𝑥| വികസിപ്പിക്കാൻ കഴിയും അതിനാൽ നമ്മൾ ഈ sin𝑥 പ്രവർത്തനം നോക്കിയാൽ അത് ഒരു മോഡുലസ് sin𝑥 ആണ് അതിനാൽ ഇത് ഇവിടെ 0 ആണ് തുടർന്ന് 𝜋 അത് വീണ്ടും 0 ആകും തുടർന്ന് അത് പോസിറ്റീവ് ആയതിനാൽ അത് ഒരിക്കലും നെഗറ്റീവ് ഭാഗത്തേക്ക് പോകില്ല അതിനാൽ ഇത് ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് ആയിരിക്കും അങ്ങനെ 0 മുതൽ 𝜋 വരെ പിന്നെ 2𝜋 മുതലായവ പിന്നെ നമുക്ക് −𝜋 −2𝜋 തുടങ്ങിയവയുണ്ട് അതിനാൽ നിരവധി മാർഗങ്ങളുണ്ടാകാം പക്ഷേ പിരീഡ് പ്രശ്നമല്ലെന്ന് കാണിക്കാൻ നമ്മൾ രണ്ട് കേസുകൾ പരിഗണിക്കുന്നു ഉദാഹരണത്തിന് ഇവിടെ ഈ ഫംഗ്ഷന്റെ പിരീഡ് 𝜋 ആണ് അതിനാൽ നമ്മൾ പിരീഡ് 𝜋 എടുക്കുകയാണെങ്കിൽ ഈ സീരീസിൽ നൽകിയിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ഇവിടെ അർത്ഥമാക്കുകയും ഫൊറിയർ സീരീസ് എഴുതുകയും ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ 0 മുതൽ 2𝜋 വരെ ഒരു ഫംഗ്ഷൻ എടുക്കുകയും തുടർന്ന് ഫോറിയർ സീരീസ് എഴുതുകയും ചെയ്യുന്നു രണ്ട് ഫൊറിയർ സീരീസും ഒന്നുതന്നെയായിരിക്കും ഉദാഹരണത്തിന് ഈ ഉദാഹരണം ഉപയോഗിച്ച് നമ്മൾ അത് തെളിയിക്കും അതിനാൽ ഈ ഫംഗ്ഷൻ പിരീഡ് 𝜋 എന്ന ഫംഗ്ഷനായി പരിഗണിക്കപ്പെടാം നമുക്ക് ഇന്റർവെൽ 0 𝜋ൽ പ്രവർത്തിക്കാം അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ പിരീഡ് 2𝜋 ആയി കണക്കാക്കാം അതിനാൽ നമ്മൾ ഇവിടെ രണ്ട് കേസുകൾ എടുക്കും ആദ്യ സന്ദർഭത്തിൽ നമ്മൾ ഈ ഫംഗ്ഷനെ ഒരു 𝜋 പിരീഡിന്റെ ഫംഗ്ഷനായി കണക്കാക്കും ഇത് യഥാർത്ഥത്തിൽ ഈ ഫംഗ്ഷന്റെ ഫണ്ടമെന്റൽ പിരീഡാണ് രണ്ടാമത്തെ കാര്യത്തിൽ ഈ ഫണ്ടമെന്റൽ പിരീഡ് 𝜋 യെ 2 കൊണ്ട് ഗുണിക്കും അതായത് നമ്മൾ 2𝜋 എടുക്കും നമ്മൾ ഈ ഫംഗ്ഷനെ 2𝜋 പീരിയോഡിക് ഫംഗ്ഷനായി കണക്കാക്കുകയും തുടർന്ന് നിർമ്മിക്കുകയും ചെയ്യും അതിന്റെ ഫൊറിയർ സീരീസും അവസാനവും ഒരു പിരീഡ് 𝜋 എടുത്താലും അല്ലെങ്കിൽ 2𝜋 അല്ലെങ്കിൽ 3𝜋 പിരീഡ് എടുത്താലും അത് യഥാർത്ഥത്തിൽ ഒന്നുതന്നെയാണെന്ന് നമുക്ക് മനസ്സിലാകും ഫൊറിയർ സീരീസിന് ഇത് പ്രശ്നമല്ലനമുക് അതേ ഫോറിയർ സീരീസ് ഉണ്ടായിരിക്കും അതിനാൽ ആദ്യ കേസിൽ നമ്മൾ ഈ ഫംഗ്ഷൻ | sin𝑥 | നെ 𝜋 പീരിയോഡിക് ആയി കൈകാര്യം ചെയ്യും എന്നിട്ട് നമുക്ക് 𝜋 പീരിയോഡിക്കിന് സാധാരണ പിരീഡ് ഉണ്ട് സ്റ്റാൻഡേർഡ് -𝜋𝜋 അല്ല നമ്മൾ ഇതിനെ എടുക്കുന്നത് 𝜋 പീരിയോഡിക് ആയിട്ടാണ് അതായത് 2𝑙𝜋 കൂടാതെ നമുക് 𝑙𝜋2ഉണ്ട് അതിനാൽ ഈ ഫൊറിയർ സീരീസിന്റെ പൊതുവായ പതിപ്പ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നു അപ്പോൾ ഈ വിശദീകരണം അനുസരിച് നമുക്കുള്ള കോഎഫിഷ്യന്റ് 𝑎0 1l 11𝑓𝑥𝑑𝑥 ആണ് കൂടാതെ 1l 2𝜋 ആകും അതിനാൽ പുറത്തുള്ള 1l 2𝜋ആണ് മാത്രമല്ല നമ്മൾ 0 മുതൽ 2𝑙 അല്ലെങ്കിൽ −𝑙 മുതൽ 𝑙 വരെ ഇന്റഗ്രേറ്റ് ചെയ്യും അതിനാൽ ഈ കേസിൽ നമ്മൾ 0 മുതൽ 2𝑙 വരെ എടുക്കും കൂടാതെ 2𝑙𝜋 ആകും അതിനാൽ 0𝜋𝑓𝑥𝑑𝑥 ആണ് ഇത് 2𝜋ആണ് 0 മുതൽ 𝜋 വരെയുള്ള 𝑓𝑥 sin𝑥 ആകും ഇത് പോസിറ്റീവാണ് അതിനാൽ ഇവിടെയുള്ള മോഡുലസ് നമ്മൾ ഉപേക്ഷിക്കും കൂടാതെ sin𝑥 ന്റെ ഇന്റഗ്രേഷൻ 0 മുതൽ 𝜋 വരെ −cos𝑥 ആകും അപ്പോൾ നമുക് 4𝜋 കിട്ടും അതാണ് ആദ്യത്തെ കോഎഫിഷ്യന്റ് 𝑎04𝜋 ഇപ്പോൾ നമ്മൾ 𝑎𝑛 കണക്കാക്കും ആ ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട് 1l02l𝑓𝑥cos𝑛𝜋𝑥l𝑑𝑥 അതിനാൽ ഇവിടെ കൂടാതെ 0 മുതൽ 2𝑙 വരെയും 0 മുതൽ 𝜋 വരെയും നമ്മൾ ഈ 𝑓𝑥 എടുക്കും0 മുതൽ 𝜋 വരെ ഫംഗ്ഷൻ പോസിറ്റീവാണ് അങ്ങനെ നമുക്ക് sin𝑥 ഉം പിന്നെ cos2𝑛𝑥 ഉം ഉണ്ട് അപ്പോൾ നമുക്ക് cos2𝑛𝑥 എങ്ങനെ ലഭിക്കും cos𝑛𝜋𝑥lഉം പിന്നെ 𝑙𝜋2ഉം അതിനാൽ ഈ 𝜋 റദ്ദാക്കുകയും നമുക് cos2𝑛𝑥 ലഭിക്കുകയും ചെയ്യും അതിനാൽ ഇത് cos2𝑛𝑥 ആണ് ഇപ്പോൾ നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും അതിനാൽ 2sin𝑎cos𝑏 ഫോർമുല പ്രയോഗിക്കും അതിനാൽ സൈൻ ടേം sin2𝑛1𝑥 നോടൊപ്പം വരും കൂടാതെ −sin2𝑛−1𝑥 ഉള്ള സൈൻ ടേം വരും എന്നിട്ട് നമുക്ക് ഈ കോസ് ഉപയോഗിച്ച് രണ്ട് സ്ഥലങ്ങളിലും ഇന്റഗ്രേറ്റ് ചെയ്ത 0 മുതൽ to വരെ പരിമിതപ്പെടുത്താം ഈ 𝜋 പകരം വയ്ക്കുന്നത് നമുക്ക് 2𝑛1 ആണ് അതിനാൽ നമുക്ക് ഈ മൂല്യം 2 അവിടെ ലഭിക്കും ഇവിടെയും നമുക്ക് cos ഉണ്ട് തുടർന്ന് 2𝑛 − 1 വീണ്ടും ലഭിക്കും അതിനാൽ നമുക് 0 ക്ക് ഒപ്പം 𝜋 ഉള്ളതിനാൽ ഇത് 0 ൽ 1 ആകും നമ്മൾ 0 പകരം വരുമ്പോൾ ഇത് വീണ്ടും 1 ആകും അതിനാൽ ഈ 2 നമുക്ക് അവിടെ ലഭിക്കും ചെറുതാക്കിയതിനു ശേഷം നമുക്ക് ലഭിക്കുന്ന മൂല്യം −4𝜋4𝑛2−1 ആയിരിക്കും ശരി നമുക്ക് ഇപ്പോൾ എന്ത് ലഭിക്കും അതിനാൽ ഇത് 𝑎𝑛 𝑛 123 എന്നിവയുടെ കോഎഫിഷ്യന്റാണ് അതിനാൽ നമുക് ഇതിനകം മൂല്യം ലഭിച്ചു 𝑏𝑛 ന് വീണ്ടും നമുക് സമാനമായ ഫലം 1l02l𝑓𝑥sin𝑛𝜋𝑥l𝑑𝑥 ഇവിടെ ഉണ്ട് അതിനാൽ ഇപ്പോൾ നമുക് 𝑏𝑛 കണക്കാക്കാം അതിനാൽ sin2𝑛𝑥 sin𝑥 നോടൊപ്പം വരും വീണ്ടും നമ്മൾ 2sin𝑎sin𝑏 ഫോർമുല കൊടുക്കണം cos2𝑛−1𝑥−cos2𝑛1𝑥 പദങ്ങൾ വരികയും കോസ് സൈൻ ആകുകയും ചെയ്യും സൈൻ ഇവിടെയുള്ളതിനാൽ നിങ്ങൾ 𝜋 അല്ലെങ്കിൽ 0 ഇട്ടാലും ഇത് 0 ആയിരിക്കും അതിനാൽ ഈ 𝑏𝑛 0 ആണെന്ന് അവസാനം നമ്മൾ മനസ്സിലാക്കി കൂടാതെ നമുക്ക് ഈ 𝑓 𝑥 ആദ്യ പദമായ a02 ആയി എഴുതാം അത് 4𝜋 ആയിരുന്നു അതിനാൽ ഇത് 2𝜋 ആയിരിക്കും 𝑏𝑛 പദങ്ങൾ 0 ആയതിനാൽ നമുക് ഈ കോസ് പദങ്ങൾ മാത്രമേ ഉള്ളു അതിനാൽ സൈൻ ടേം ഉണ്ടാകില്ല Cos2𝑛𝑥 നോടൊപ്പം നമുക് ഇത് ഉണ്ട് ഇത് കോഎഫിഷ്യന്റ് 𝑎𝑛 ആണ് നമ്മൾ മുമ്പ് വിലയിരുത്തിയിട്ടുണ്ട് അതിനാൽ ഈ ഫംഗ്ഷനെ ഒരു 𝜋 പീരിയോഡിക് ഫംഗ്ഷനായി പരിഗണിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക് കുറച്ചുകൂടി ലളിതമാക്കാൻ കഴിയുമ്പോഴാണ് നമുക് ഈ ഫോറിയർ സീരീസ് ലഭിച്ചത് അതിനാൽ ഇവിടെ നമ്മൾ ഈ −4𝜋 പുറത്തേക്ക് കൊണ്ടുപോയി തുടർന്ന് നമുക് ഈ സീരീസ് ഇവിടെ ലഭിച്ചു ശരി ഇപ്പോൾ രണ്ടാമത്തെ കാര്യത്തിൽ നമ്മൾ ഈ 𝑓 𝑥 ഒരു 2𝜋 പീരിയോഡിക് ഫംഗ്ഷനായി പരിഗണിക്കും കാരണം 2𝜋 ഒരു ഫണ്ടമെന്റൽ പിരീഡ് അല്ല പക്ഷേ ഇത് ഫംഗ്ഷന്റെ ഒരു പിരീഡ് കൂടിയാണ് അതിനാൽ നിങ്ങൾക്ക് ഈ 2𝜋 പീരിയോഡിക് ഫംഗ്ഷൻ പരിഗണിക്കാം തുടർന്ന് സ്റ്റാൻഡേർഡ് ഫലം 𝑎𝑛 1𝜋ആയിരിക്കുകയും പിന്നീട് 𝜋 മുതൽ 𝜋 വരെ ആകുകയും ചെയ്യും അതിനാൽ 𝑎𝑛1𝜋 ആണ് ഫലം കൂടാതെ നമുക് 𝜋 മുതൽ 𝜋 വരെ ഉണ്ട് കൂടാതെ ഈ 𝑓𝑥 ഉം ഈ കോസും ഇവിടെ നേരത്തെ എഴുതിയിട്ടുണ്ട് നമ്മൾ സംസാരിക്കുന്നത് 𝑓𝑥 നെക്കുറിച്ചാണ് 𝑓𝑥 ഒരു ഈവൻ ഫംഗ്ഷൻ ആണ് മാത്രമല്ല cos𝑥 ഉം ഒരു ഈവൻ ഫംഗ്ഷൻ ആണ് അതിനാൽ 𝜋 മുതൽ 𝜋 വരെ ഇന്റെഗ്രേണ്ടും ഈവൻ ആണ് പിന്നെ നമുക്ക് 2 തവണ ഇന്റഗ്രൽ എഴുതാം തുടർന്ന് 0 മുതൽ 𝜋 വരെ പിന്നെ നമുക്ക് ഇവിടെ ഫംഗ്ഷൻ ഉണ്ട് എന്നാൽ ഇപ്പോൾ 0 മുതൽ 𝜋 വരെ ഫംഗ്ഷൻ പോസിറ്റീവ് ആണ് അതിനാൽ നമ്മൾ മോഡുലസ് നീക്കം ചെയ്തു അതിനാൽ നമുക്ക് sin𝑥 ഉണ്ട് തുടർന്ന് നമുക്ക് ഈ cos𝑛𝑥𝑑𝑥 ഉണ്ട് അതിനാൽ ഇപ്പോൾ നമുക്ക് ഈ ഫോർമുല 2sin𝑥cos𝑛𝑥 പ്രയോഗിക്കാൻ കഴിയും അപ്പോൾ sin 𝑛1𝑥 ഉം sin𝑛−1𝑥 ഉം വരികയും നമ്മൾ ഈ സൈനിനെ ഇന്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യൂ അതുകൊണ്ട് നമുക് ′−′ ചിഹ്നത്തിനൊപ്പം ലഭിക്കും ഈ കോസൈനും ഈ കോസൈനും വീണ്ടും അതേ വാദത്തോടെ നമ്മൾ ആദ്യം 𝜋 അവിടെ വെക്കും cos𝑛1𝜋 യും − cos 0 ക്ക് ഒപ്പവും അപ്പോൾ നമുക് എന്താണ് ലഭിക്കുന്നത് ആദ്യം നമ്മൾ 𝑛≠1 എന്ന് അനുമാനിക്കണം അല്ലാത്തപക്ഷം ഇത് മാറും അതിനാൽ നമുക്ക് ഈ ഫോർമുല −1𝑛1 ലഭിക്കും കൂടാതെ 0 ക്ക് നമുക്കിവിടെ 1 ലഭിക്കും അതുപോലെ −1𝑛−1 0 ക്ക് നമുക്കിവിടെ 1 ലഭിക്കും അതിനാൽ 𝑛≠1 ന് എന്താണ് നമുക്കുള്ളത് നമുക് ഈ ഫോർമുല ഉണ്ട് കൂടുതൽ ലളിതമാക്കിയ രൂപത്തിൽ കൂടുതൽ എഴുതാൻ കഴിയും അതിനാൽ 𝑛 ഓഡ്ഡ് ആണെങ്കിൽ ഇത് 0 ആകും 𝑛 ഈവൻ ആണെങ്കിൽ ഇതിനെ −4𝜋𝑛2−1 ഇങ്ങനെ ചെറുതാക്കാൻ കഴിയും അതിനാൽ ഇപ്പോൾ നമുക് 𝑎1 പ്രത്യേകം കണക്കാക്കാം കാരണം ഈ ഫോർമുല പൊതുവായ 𝑛1 ന് സാധുതയില്ല അതുകൊണ്ട് sin2𝑥 എന്ന sin𝑥cos𝑥 ആയി നമുക്ക് ഈ sin𝑥cos𝑛𝑥 വെവ്വേറെ ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഈ cos ഉണ്ടായിരിക്കാൻ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും തുടർന്ന് നമുക്ക് cos2𝜋 ഉം പിന്നെ −cos0 −1ഉം cos2𝜋 1ഉം എന്നിട്ട് −cos0 −1ഉം ഉണ്ട് നമുക് ഈ 0 ലഭിക്കുംഈ 𝑎10 ഉം 𝑎𝑛 ഉം നമ്മൾ നേരത്തെ കണക്കുകൂട്ടിയതാണ് 𝑏𝑛 ന് ഈ ഫൊറിയർ കോഎഫിഷ്യന്റുകൾ 𝑏𝑛 എഴുതിയാൽ നമുക്ക് ഇത് |sin𝑥 | sin𝑛𝑥 എന്ന് ലഭിക്കും ഇത് ഈവൻ ആയതിനാൽ നമുക് ഇവിടെ ഒരു ഓഡ്ഡ് ഉണ്ട് -𝜋 മുതൽ 𝜋 വരെയുള്ള ഒരു ഇന്റെഗ്രേണ്ട ആയി ഈ ഓഡ്ഡ് ഫംഗ്ഷൻ ഉണ്ട് ഇത് ഒരു കണക്കുകൂട്ടലും ഇല്ലാതെ തന്നെ 0 ആയിത്തീരും അതിനാൽ ഈ കോഎഫിഷ്യന്റ് 𝑏𝑛0 ആയിത്തീരും അതിനാൽ ഈ 𝑎𝑛′𝑠 𝑏𝑛′𝑠 എന്നിവയ്ക്ക് പകരമായി ഇപ്പോൾ നമ്മുടെ 𝑓𝑥 ഈ രീതിയിൽ ലഭിക്കും ഈ 4𝑛2−1 ഉം ഈ cos2𝑛𝑥 പദവും ഉള്ള കൂടുതൽ ഒതുക്കമുള്ള രൂപത്തിൽ വീണ്ടും എഴുതാൻ കഴിയും അതിനാൽ ഇത് കൃത്യമായി 𝜋 പീരിയോഡിക് എന്ന് അനുമാനിക്കുന്ന സീരീസായിരുന്നു അതിനാൽ നമ്മൾ ഇവിടെ രണ്ട് കേസുകൾ പരിഗണിച്ചിട്ടുണ്ട് ഒന്ന് നമ്മൾ ഫംഗ്ഷൻ 𝜋 പീരിയോഡിക് ആയി എടുക്കുകയും തുടർന്ന് ഈ ഫംഗ്ഷൻ 2𝜋 പീരിയോഡിക് ആയി എടുക്കുകയും ചെയ്തു അവസാനം നമ്മൾ പ്രതീക്ഷിച്ച അതേ ഫൊറിയർ സീരീസ് നമ്മൾ ക്ക് ലഭിക്കുന്നുണ്ടെന്ന് നമ്മൾ നിരീക്ഷിച്ചു കാരണം ഈ പിരീഡിലെ മാറ്റം ഫംഗ്ഷന്റെ സ്വഭാവത്തെ മാറ്റുന്നില്ല ഫംഗ്ഷന്റെ ഈ ആവർത്തിച്ചുള്ള സ്വഭാവം കൊണ്ട് ഇത് അധിക ദൈർഘ്യം എടുക്കുന്നു അതിനാൽ ഒരു ഫംഗ്ഷന്റെ പിരീഡിനെ അതിന്റെ ഫണ്ടമെന്റൽ പിരീഡിന്റെ ഏതെങ്കിലും പൂർണ്ണസംഖ്യയുടെ ഗുണിതമായി പരിഗണിച്ച് നിങ്ങൾ ഫൊറിയർ ശ്രേണി വികസിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അവസാനിക്കുന്ന അതേ ഫോറിയർ സീരീസിൽ അവസാനിക്കുമെന്ന് ഈ ഉദാഹരണത്തിൽ നിന്ന് നമ്മൾ തെളിയിച്ചു മേൽപ്പറഞ്ഞ ഉദാഹരണത്തിൽ നൽകിയിരിക്കുന്ന ഫംഗ്ഷൻ ഒരു ഈവൻ ഫംഗ്ഷനാണെന്നതും ശ്രദ്ധിക്കുക അതിനാൽ നമ്മൾ പിന്നീട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു നിരീക്ഷണം ഈ സൈൻ ഫംഗ്ഷൻ ഒരു ഈവൻ ഫംഗ്ഷനാണെന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്യും അതിനാൽ ഇവിടെ സൈൻ ഫംഗ്ഷൻ കേവല മൂല്യത്തോടെയാണ് അത് ഒരു ഈവൻ ഫംഗ്ഷനായിരുന്നു അതിനാൽ ഇവിടെ ഈ 0 ന് ചുറ്റുമുള്ള നെഗറ്റീവ് മൂല്യങ്ങളിലെ അതേ മൂല്യമുണ്ട് അതിനാൽ ഇത് ഒരു ഈവൻ ഫംഗ്ഷനായിരുന്നു ഈവൻ ഫംഗ്ഷനായി നമ്മൾ 𝑏𝑛 കണക്കുകൂട്ടുമ്പോൾ 𝑏𝑛 ൽ 𝑓𝑥 ഉം സൈൻ ഉം ഉൾപ്പെട്ടിട്ടുണ്ട് സൈൻ ഓഡ്ഡ് ഫംഗ്ഷനും 𝑓𝑥 ഈവൻ ഫംഗ്ഷനും ആണ് അതിനാൽ പ്രോഡക്റ്റ് ഓഡ്ഡ് ഫംഗ്ഷനായിരിക്കും കാരണം നമുക്ക് ഈവനും ഓടും ഉണ്ട് അതിനാൽ പ്രോഡക്റ്റ് ഓഡ്ഡ് ആയിരിക്കും അതിനാൽ നമ്മൾ ഇവിടെ 𝑏𝑛 കോഎഫിഷ്യന്റുകൾ കണക്കാക്കുമ്പോൾ ഈ 𝑓𝑥 ഈവൻ ആണെങ്കിൽ ഇത് ഓഡ്ഡ് ആണെങ്കിൽ ഈ ഓഡിന്റെയും ഈവന്റെയും പ്രോഡക്റ്റ് ഓഡ്ഡ് ആയിരിക്കും അതിനാൽ ഇന്റെഗ്രേണ്ട് ഓഡ്ഡ് ആണെങ്കിൽ നമ്മൾ −𝜋 മുതൽ 𝜋 വരെ വരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ ഇന്റഗ്രൽ 0 ആകും അതിനാൽ അത് വിവരിക്കുന്നതിനുള്ള മറ്റൊരു മാർഗമാണ് ഇത്ഈ 𝑓 𝑥 ഒരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഈ 0 കണക്കാക്കരുത് സ്വാഭാവികമായും ഈ 𝑏𝑛 അപ്രത്യക്ഷമാകും അല്ലെങ്കിൽ തിരിച്ചും നമ്മൾ ഓഡ്ഡ് ഫംഗ്ഷനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 𝑎𝑛 0 ആകും കൂടാതെ നമുക്ക് 𝑏𝑛 കണക്ക് കൂട്ടേണ്ടി വരും അതിനാൽ ഫംഗ്ഷൻ ഓഡ്ഡോ ഈവനോ ആണെങ്കിൽനമുക്ക് കണക്കുകൂട്ടലുകൾ ലളിതമാക്കാം ഒന്നുകിൽ 𝑎𝑛 നിലനിൽക്കും അല്ലെങ്കിൽ 𝑏𝑛 നിലനിൽക്കും അതിനാൽ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന അവസാന ഉദാഹരണമാണിത് 𝑓 2𝜋 പിരീഡിൽ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്ന് കരുതുക അതിനെ ഇങ്ങനെയാണ് വിശദീകരിച്ചിരിക്കുന്നത് −𝜋𝑥0 ൽ 12ഉം 0≤𝑥≤𝜋 ൽ 1 ഉം ഇതിന്റെ ഫോറിയെർ കോഎഫിഷ്യന്റുകൾ കണക്കാക്കുകയാണെങ്കിൽ ആദ്യത്തെ 𝑎0 യുടെ മൂല്യം 𝜋 മുതൽ 0 വരെയും 0 മുതൽ 𝜋 വരെയും യഥാക്രമം 12 ഉം 1 ഉം ആയിരിക്കും അതിനാൽ നമുക്ക് ഈ 32 ലഭിക്കും അതുകഴിഞ്ഞ് നമ്മൾ ഈ 𝑎𝑛 കണക്കാക്കുകയാണെങ്കിൽ ഈ cos𝑛𝑥 ഉപയോഗിച്ച് വീണ്ടും നമുക്ക് −𝜋 മുതൽ 0 വരെയും 0 മുതൽ −𝜋 വരെയും പോകണം cos𝑛𝑥 12 പിന്നെ 1 അവിടെയുണ്ട് അതിനാൽ വീണ്ടും ഇത് 0 ആണെന്നും ഇത് രസകരമാണെന്നും നമുക്ക് മനസ്സിലാകും കാരണം ഇത് ഈവനും ഓടും ആയത് കാരണം ഇത് 0 അല്ല എന്നാൽ ഇത് ഇപ്പോൾ കാണപ്പെടുന്നു ഇത് 0 ആയി വരുന്നു അതിനാൽ നിങ്ങൾ 𝑏𝑛 കണക്കാക്കുകയാണെങ്കിൽ അവിടെ സൈൻ വരുന്നു തുടർന്ന് നമുക്ക് ഈ ലളിതമായ ഉദാഹരണങ്ങളും ലളിതമായ ഇന്റഗ്രലുകളും കണക്കാക്കാം നമുക്ക് 12𝑛𝜋1−cos𝑛𝜋 ലഭിക്കും അതിനാൽ ഈ ഫോറിയർ കോഎഫിഷ്യന്റുകൾ ഉള്ളതിനാൽ𝑎032 𝑎𝑛0 പിന്നെ നമുക് 𝑏𝑛 ഉണ്ട് നമുക്ക് അതിന്റെ ഫോറിയർ സീരീസ് എഴുതാം അതിനാൽ a02ൽ നിന്നും 34വരും കൂടാതെ നമുക് ഈ 𝑏𝑛 ഉണ്ട് പിന്നെ നമുക് sin𝑛𝑥 ഉണ്ട് അതിനാൽ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഫോറിയർ സീരീസാണിത് അതിനാൽ ഈ ഫോറിയർ സീരീസ് എങ്ങനെയിരിക്കുമെന്ന് നിങ്ങൾക്ക് ആശയം ലഭിക്കുകയാണെങ്കിൽ ഓർക്കുക ഫംഗ്ഷൻ −𝜋 മുതൽ 𝜋 വരെ −𝜋 𝑥 0 ൽ നിന്ന് 12ആയി ഇവിടെ നൽകി 0≤𝑥≤𝜋 മുതൽ മൂല്യം 1 ആയിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ 𝑓𝑥 പിന്നെ ഇതാണ് ഫോറിയർ സീരീസ് നമ്മൾ ഏകദേശം 10 ഘട്ടം കണ്ടെത്തി അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് ടെംസ് 10ആണ് അതിനാൽ ഇവിടെ ∞ എന്നതിനുപകരം ഉദാഹരണത്തിന് നമ്മൾ 10 എടുത്തുനമ്മൾ ഈ ഗ്രാഫ് വരച്ചിട്ടുണ്ട് തുടർന്ന് നിങ്ങൾക്ക് 10 ടെംസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഏകദേശ കണക്ക് അത്ര നല്ലതല്ല ഉദാഹരണത്തിന് തന്നിരിക്കുന്ന ഫംഗ്ഷനുമായി ഇത് പൊരുത്തപ്പെടുന്നില്ല ഇത് കൺവെർജ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷനിലേക്ക് വെറും 10 ടെംസിനായി ഇത് കൺവെർജ് ചെയ്യുന്നതായി തോന്നുന്നു എന്നാൽ നമ്മൾ എന്തുചെയ്യും നമ്മൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് കൂടുതൽ ടെംസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ 50 ടെംസ് എടുക്കുകയാണെങ്കിൽ അത് ഇവിടെയും ഇവിടെയും ഉള്ള ഫംഗ്ഷന് വളരെ അടുത്താണെന്ന് നിങ്ങൾക്ക് കാണാം എന്നാൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ഈ വശത്ത് ഫംഗ്ഷൻ മൂല്യം ഉള്ള ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് അത് 12ആണ് കൂടാതെ നമുക് മൂല്യം 1 ഉണ്ട് ഇത് ഒരു പ്രശ്നമാണ് ഇത് എല്ലായ്പ്പോഴും ഈ 1 മുതൽ 12 വരെയുള്ള ഇടത്തരം മൂല്യത്തിൽ കടന്നുപോകുന്നു ഈ സീരീസിന്റെ കൺവെർജെൻസ് എന്താണെന്ന് സൈദ്ധാന്തികമായി അടുത്ത ലെക്ചറിൽ നമ്മൾ നിരീക്ഷിക്കും അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ സീരീസ് ഏത് ഫംഗ്ഷനിലേക്ക് കൺവെർജ് ചെയ്യുന്നു കാരണം ഇവിടെ നിന്ന് നമുക്ക് ഇത് കാണാൻ കഴിയുന്ന ഫംഗ്ഷൻ 𝑓𝑥 പ്രധാനമായും പോയിന്റ് 0 യിൽ ഉള്ളത് ഉദാഹരണത്തിന് നമ്മൾ 0 മുതൽ കൂടുതൽ നിബന്ധനകൾ എടുക്കുകയാണെങ്കിൽ അത് പൊരുത്തപ്പെടുകയും 0 ൽ താഴെ മുതൽ അത് തന്നിരിക്കുന്ന പ്രവർത്തനവുമായി പൊരുത്തപ്പെടുകയും ചെയ്യും എന്നാൽ ഇവിടെ ഈ 0 പോയിന്റിൽ എന്ത് സംഭവിക്കും അത് തീർച്ചയായും ഇവിടെ പൊരുത്തപ്പെടുന്നില്ല ഇത് എല്ലായ്പ്പോഴും ഈ പോയിന്റ് നടുവിലൂടെ കടന്നുപോകുന്നു അതിനാൽ ഫൊറിയർ സീരീസിന്റെ കൺവെർജെൻസിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത ലെക്ചറിൽ അതാണ് കാണുന്നത് ഏത് സാഹചര്യത്തിലാണ് ഇത് കൺവെർജ് ചെയ്യുക അത് തന്നിരിക്കുന്ന ഫംഗ്ഷനിലേക്ക് കൺവെർജ് ചെയ്യുമോ അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും ഫംഗ്ഷനിലേക്ക് കൺവെർജ് ചെയ്യുമോ ആ ഫംഗ്ഷൻ എന്തായിരിക്കും ഈ ചർച്ചകളെല്ലാം അടുത്ത ലെക്ചറിൽ നടക്കും ഈ ലെക്ചർ തയ്യാറാക്കാൻ ഉപയോഗിച്ച റഫറൻസുകളാണിവ ഉപസംഹാരമായി നമ്മൾ ചർച്ച ചെയ്തത് 𝑓𝑥 ഈ ഇന്റെർവെല്ലിൽ വിശദീകരിച്ചിരിക്കുന്നു ഒരു പീസ്വേസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അഥവാ ഇത് 2𝑙 പീരിയോഡിക് ആകണമെന്നില്ല അല്ലെങ്കിൽ 2𝑙 പീരീഡ് പ്രശ്നമല്ല നമുക്ക് ഫൊറിയർ സീരീസ് എഴുതാം ഈ ഫൊറിയർ സീരീസ് കൺവെർജ് ചെയ്യുകയാണെങ്കിൽ ഒരു 2𝑙 പീരിയോഡിക് ഫംഗ്ഷനിലേക്ക് കൺവെർജ് ചെയ്യും അതിനാൽ ഫൊറിയർ സീരീസിന്റെ കൂടുതൽ പൊതുവായ രൂപമായിരുന്നു ഇത് ഇവിടെ ഫൊറിയർ കോഎഫിഷ്യന്റുകളുടെ ഈ കോഎഫിഷ്യന്റുകൾ ഈ രീതിയിൽ കണക്കാക്കുന്നു കൂടാതെ അതിന്റെ പിരീഡിനെ അതിന്റെ ഫണ്ടമെന്റൽ പിരീഡിന്റെ ഏതെങ്കിലും പൂർണ്ണസംഖ്യയുടെ ഗുണിതമായി എടുത്താൽ ഫൊറിയർ സീരീസ് അതേപടി തുടരും ഫൊറിയർ സീരീസ് മാറില്ല ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ നമ്മൾ തെളിയിക്കുകയും ചെയ്തു അതിനാൽ ഈ ലെക്ചറിൽ അത്രമാത്രം നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ നന്ദി പറയുന്നു